നമ്മൾ ചില റിയൽ ടൈം ടാസ്ക് ഷെഡ്യൂളറുകളെയും ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളെപ്പോലുള്ള വളരെ ലളിതമായ ഷെഡ്യൂളറുകളെയും നോക്കുകയായിരുന്നു എന്നാൽ ഓരോ ടാസ്ക്കുകളുടെയും നിർവ്വഹണത്തിന് ശേഷം വീണ്ടും വീണ്ടും ഒരു ടൈമർ സെറ്റ് ചെയ്യണ്ട ആവശ്യകത ഇതിന് ഉണ്ടെന്ന് നമ്മൾ കണ്ടു ഒരു പീരിയോഡിക് ടൈമർ വീണ്ടും വീണ്ടും ക്രമീകരിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ സൈക്ലിക് ഷെഡ്യൂളർ വളരെ ജനപ്രിയമാണ് സമാരംഭിക്കുമ്പോൾ ഇത് ഒരു തവണ സെറ്റ് ചെയേണ്ടതുണ്ട് ചെയ്യേണ്ട ജോലികൾ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഒരു കൂട്ടം പീരിയോഡിക് ടാസ്കുകൾക്കു ആയി പ്രധാന സൈക്കിൾ സെറ്റ് ചെയുക തുടർന്ന് ഒരു ഫ്രെയിം എന്നും വിളിക്കുന്ന ചെറിയ സൈക്കിൾ സെറ്റ് ചെയുക ഒരു പ്രധാന സൈക്കിൾ കമ്പ്യൂട്ട് ചെയുന്നത് വളരെ ലളിതമാണ് അത് ടാസ്ക് പിരീഡുകളുടെ LCM ആണെന്ന് നമ്മൾ ഓർക്കുക എന്നാൽ ഫ്രെയിം സൈസ് ക്രമീകരിക്കുക എന്നത് അത്ര എളുപ്പമല്ല അത് നിസ്സാരമല്ല നിരവധി ഡിസൈൻ ഇതരമാർഗങ്ങൾ ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് കൂടാതെ നമുക്ക് ഫ്രെയിം സൈസ് ഇടയിൽ ആവർത്തിക്കേണ ഒരുപക്ഷേ ഞങ്ങൾ ടാസ്ക്കുകൾ വിഭജിക്കേണ്ടതുണ്ട് ഒരു സൈക്ലിക് ഷെഡ്യൂളർ ഉപയോഗിക്കുമ്പോൾ ഫ്രെയിം സൈസ് ക്രമീകരിക്കുക എന്നത് ഒരു പ്രധാന ഡിസൈൻ ചുമതലയാണ് ആദ്യത്തെ പരിഗണന ഓരോ ഫ്രെയിമിന്റെ സൈസ്ഉം ഓരോ ടാസ്കിന്റെയും നിർവ്വഹണ സമയത്തേക്കാൾ വലുതായിരിക്കണം കാരണം ഓരോ ഫ്രെയിം സൈസ്ഉം ടാസ്ക് കൈവശം വയ്ക്കണം അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഫ്രെയിമിൽ എക്സിക്യൂഷനായി ഒരു ടാസ്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഫ്രെയിമിനുള്ളിൽ പൂർത്തിയാക്കണം അത് സ്പിൽഓവർ ചെയ്തു തുടർന്നുള്ള ഫ്രെയിമുകളിലേക്ക് കടകരുതു അതുകൊണ്ടാണ് ഫ്രെയിം സൈസ് ഏറ്റവും വലിയ ടാസ്ക് നിർവ്വഹണ സമയത്തേക്കാൾ വലുതായിരിക്കണം മുകളിലുള്ള പരിഗണനയെ അടിസ്ഥാനമാക്കി ഫ്രെയിമിന് നമുക്ക് ഒരു ലോവർ ബൌണ്ട് ലഭിക്കും ഫ്രെയിം ഏറ്റവും വലിയ ടാസ്ക് വലുപ്പത്തേക്കാൾ കുറവാണെങ്കിൽ ഇത് ഒരു നല്ല ഷെഡ്യൂൾ അല്ല നമ്മൾ കാണുന്നതുപോലെ ഇതിന് പ്രശ്നങ്ങളുണ്ടാകും രണ്ടാമത്തെ പരിഗണന നമ്മൾ സ്റ്റോർ ചെയ്യണ്ട ഷെഡ്യൂൾ ടേബിൾന്ടെ ചെറുതാക്കലാണ് ഈ പരിഗണനയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഫ്രെയിം സൈസ് പ്രധാന സൈക്കിളിനെ സമചതുരമായി വിഭജിക്കണം അല്ലെങ്കിൽ അത് പ്രധാന സൈക്കിളെന്ടെ ഘടകമായിരിക്കണം ഈ പരിഗണനയെ അടിസ്ഥാനമാക്കി നമുക്ക് കുറച്ച് പ്രത്യേക ഫ്രെയിം സൈസ് മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ ഫ്രെയിം സൈസ് പ്രധാന സൈക്കിളിനെ സമചതുരമായി വിഭജിക്കുന്നില്ലെങ്കിൽ നിരവധി പ്രധാന സൈക്കിളുകളുടെ ഷെഡ്യൂൾ സ്റ്റോർ ചെയേണ്ടതുണ്ട് ഫ്രെയിം പ്രധാന സൈക്കിളിനെ സമചതുരമായി വിഭജിക്കുകയാണെങ്കിൽ പ്രധാന സൈക്കിളിന് ശേഷം അതേ ടാസ്ക് സീക്വൻസ് ആവർത്തിക്കും അതിനാൽ ഒരു പ്രധാന സൈക്കിളിനായി ഞങ്ങൾ ടാസ്ക് ഷെഡ്യൂൾ മാത്രം സ്റ്റോർ ചെയേണ്ടതുണ്ട് മൂന്നാമത്തെ പരിഗണന ഓരോ ടാസ്കും അതിന്റെ ഡെഡ്ലൈൻ പാലിക്കണം ഇത് സംഭവിക്കാൻ ഒരു ടാസ്ക്കിന്റെ വരവിനും ഡെഡ്ലൈനിനും ഇടയിൽ ഒരു പൂർണ്ണ ഫ്രെയിം ഉണ്ടായിരിക്കണം ഒരു ഫ്രെയിം ആരംഭിച്ചതിനുശേഷം ഒരു ടാസ്ക് വന്നാൽ ആ ഫ്രെയിമിൽ ടാസ്ക് ഏറ്റെടുക്കാനാവില്ലെന്നും അതിന്റെ ഡെഡ്ലൈൻ ഫ്രെയിമിനുള്ളിലാണെങ്കിൽ ടാസ്ക് എക്സിക്യൂഷൻ അതിന്റെ ഡെഡ്ലൈനിനു മുമ്പായി ആരംഭിക്കാൻ കഴിയില്ലെന്നും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഒരു ടാസ്ക്കിന്റെ ആരംഭത്തിനും ഡെഡ്ലൈനിനും ഇടയിൽ വ്യക്തമായ ഒരു ഫ്രെയിമെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം അതിനാൽ ഒരു ഫ്രെയിം സൈസ് ഓരോ ടാസ്ക് കാലയളവിലും കുറവായിരിക്കണം ഇത് ഫ്രെയിം സൈസ്ന്ടെ അപ്പർ ബൌണ്ട് സെറ്റ് ചെയുന്നു ഫ്രെയിം സൈസ് ഓരോ ടാസ്ക് കാലയളവിനേക്കാളും കൂടുതലായിരിക്കണം എന്നതാണ് ഈ മൂന്നാമത്തെ വ്യവസ്ഥയുടെ പരസ്പരബന്ധം ആദ്യത്തെ നിബന്ധന ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കേണ്ടതാണ് ഓരോ ടാസ്കും ഫ്രെയിം സൈസ്ഇൽ നിർവ്വഹിക്കാൻ കഴിയണം കാരണം അത് സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നിലധികം ഫ്രെയിമുകളിലൂടെ ടാസ്ക് റൺ ചെയ്യണം അത്തരം സന്ദർഭങ്ങളിൽ മറ്റ് ടാസ്ക്കുകൾ ഇതിനിടയിൽ പ്രവർത്തിച്ചേക്കാം തുടർന്ന് ഒരു ടാസ്ക് പാതിവഴിയിൽ നടപ്പിലാക്കുന്നതിലൂടെ ലഭിച്ച ഭാഗിക ഫലങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതു ഭാഗികമായിരിക്കാം തുടർന്ന് അത് പൊരുത്തക്കേടിലേക്ക് നയിച്ചേക്കാം രണ്ടാമത്തെ നിബന്ധനയിലെ ഓരോ ടാസ്കും നിർവ്വഹണ സമയത്തേക്കാൾ വലുതായിരിക്കണം ഫ്രെയിം സൈസ് ആദ്യത്തെ നിബന്ധന തിരഞ്ഞെടുത്ത ഫ്രെയിം സൈസ് ഓരോ ജോലിയുടെയും നിർവ്വഹണ സമയത്തേക്കാൾ വലുതായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ വ്യവസ്ഥ ടേബിൾന്ടെ സൈസ് കുറയ്ക്കുക എന്നതാണ് ഇതാണ് നമ്മൾ എല്ലാ ഫ്രെയിംനും വേണ്ടി സ്റ്റോർ ചെയുന്നു ഷ്ഡ്യൂൽ ടേബിൾ ഇതു ഏതു ടാസ്ക് റൺ ചെയുമെന് നിശ്ചയിക്കുന്നു ഫ്രെയിം ഇന്റെര്പ്ട് ചെയ്യപ്പെടുമ്പോൾ ടാസ്ക് ടേബിൾ പരിശോധിച്ച് ടാസ്ക് ഏറ്റെടുക്കുന്നു ആദ്യ ഫ്രെയിം ഗ്രീൻ ടാസ്ക് ഏറ്റെടുക്കുന്നു രണ്ടാമത്തെ ഫ്രെയിം റെഡ് ടാസ്ക് എടുക്കുന്നു മൂന്നാമത്തെ ഫ്രെയിം മന്നയും ആയ ടാസ്ക് എടുക്കുന്നു പ്രധാന സൈക്കിൾനു ശേഷം അതേ ശ്രേണി ആവർത്തിക്കുന്നു കാരണം ഫ്രെയിം അവസാന ഫ്രെയിം ബൌണ്ടറി പ്രധാന സൈക്കിളുമായി കോഇൻസൈഡ് ചെയുന്നു ഈ സമയം എല്ലാ ടാസ്കുകളും പ്രവർത്തിക്കുന്നു ഇത് എല്ലാ ടാസ്ക് പീരിയഡ്ന്ടെയും LCM ആണ് അതിനാൽ ഓരോ ടാസ്ക് പെരിയഡിനും ഇവിടെ അവസാനിക്കുന്നതിന്റെ കൂടിമുട്ടൽ ഇവിടെയുണ്ട് എന്നാൽ ഫ്രെയിം ബൌണ്ടറി പ്രധാന സൈക്കിൾ ബൌണ്ടറിയുമായി കൂടി മുട്ടിക്കാൻ കഴിഞില്ലെകിൽ അത് വ്യാപിക്കുന്നു തുടർന്ന് നമ്മൾ കുറെ പ്രധാന സൈക്കിൾസ് ഷ്ഡ്യൂൽ ടേബിൾഇൽ സ്റ്റോർ ചെയുന്നു അതു റൺ ചെയാൻ ഈ പരിഗണനയിൽ നിന്ന് ഫ്രെയിം സൈസ് പ്രധാന സൈക്കിൾ വിഭജിക്കണം ഇത് പ്രധാന സൈക്കിൾന്ടെ ഒരു ഘടകമായിരിക്കണം കൂടാതെ ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുന്നതിന് കുറച്ച് പ്രത്യേക ചോയിസുകൾ മാത്രമേ ഇത് നൽകൂ മൂന്നാമത്തെ വ്യവസ്ഥ ഓരോ ടാസ്ക് ഡെഡ്ലൈനും പാലിക്കേണ്ട തരത്തിൽ ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കണം എന്നതാണ് ഈ ഫ്രെയിം ബൌണ്ടറി ഒരു ഘട്ടത്തിൽ ആരംഭിക്കുന്നുവെന്ന് നമുക്ക് പറയാം മറ്റൊരു ഘട്ടത്തിൽ ആരംഭിക്കുന്ന ഫ്രെയിം ബൌണ്ടറി നമക്ക് ഉണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഒരു ഡെൽറ്റ ടൈംന് ശേഷം ടാസ്ക് ഇൻസ്റ്റൻസ് ti ഈ ഘട്ടത്തിൽ എത്തി എന്ന് നമുക്ക് അനുമാനിക്കാം വ്യക്തമായും ഈ ഫ്രെയിമിൽ ടാസ്ക് ഏറ്റെടുക്കാൻ കഴിയില്ല കാരണം ഷെഡ്യൂളർ കോഡ് ടാസ്ക് നിർവ്വഹിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന ഓരോ ഫ്രെയിമിനും തൊട്ടുമുമ്പ് ഷെഡ്യൂളർ വരുന്നു ടാസ്ക് നിർവ്വഹിക്കാൻ ആരംഭിക്കുന്നു ഷെഡ്യൂൾ ടേബിളുമായി ആലോചിക്കുന്നു ഏത് ടാസ്ക് പ്രവർത്തിപ്പിക്കണമെന്ന് കണ്ടെത്തുന്നു അത് പ്രവർത്തിക്കുന്നു തുടർന്ന് അത് നിർത്തുന്നു ഒരു ഫ്രെയിം അതിർത്തിയുടെ ആരംഭത്തിൽ മാത്രമേ ഇതിന് ഒരു സ്റ്റാർട്ട് റൺ ചെയാൻ കഴിയൂ പക്ഷേ ഇവിടെ ടാസ്ക് ഫ്രെയിം ബൌണ്ടറികു തൊട്ടുപിന്നാലെ എത്തി വ്യക്തമായും ഇതിന് ഈ ഫ്രെയിമിൽ പ്രവർത്തിക്കാൻ കഴിയില്ല തുടർന്ന് ഇത് അടുത്ത ഫ്രെയിമിൽ അടുത്ത ഫ്രെയിം ബൌണ്ടറിഇൽ എടുക്കാം അടുത്ത ഫ്രെയിം ബൌണ്ടറിഇൽ ടാസ്ക് നിർവ്വഹിക്കാൻ ആരംഭിക്കുമ്പോൾ ഡെഡ്ലൈൻ വളരെ അടുത്താണ് അതിന് ഡെഡ്ലൈൻ പാലിക്കാൻ കഴിയില്ല ടാസ്കിന്റെ വരവിനും ഡെഡ്ലൈനിനും ഇടയിൽ കുറഞ്ഞത് ഒരു പൂർണ്ണ ഫ്രെയിമെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ഈ വ്യവസ്ഥ ആവശ്യപ്പെടുന്നു കാരണം ഇവിടെ പൂർണ്ണ ഫ്രെയിം നിലവിലുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ ടാസ്ക് ഇവിടെയെത്തിയാൽ അടുത്ത ഫ്രെയിമിൽ എക്സിക്യൂഷന് വേണ്ടി എടുക്കുന്നു കൂടാതെ ഫ്രെയിം സൈസ് എല്ലാ ടാസ്ക് എക്സിക്യൂഷൻ സമയത്തേക്കാളും വലുതാണെന്ന് നമുക്ക്ക്കറിയാം അതിനാൽ ഇത് ഫ്രെയിമിനുള്ളിൽ പൂർത്തിയാകും അതിനുശേഷം അതിന്റെ ഡെഡ്ലൈൻ എത്തണം മൂന്നാമത്തെ നിബന്ധന പ്രകാരം ഒരു ടാസ്ക്കിന്റെ വരവിനും അതിന്റെ ഡെഡ്ലൈനിനും ഇടയിൽ വ്യക്തമായ ഒരു ഫ്രെയിം ഉണ്ടായിരിക്കണം ടാസ്ക് ഡെഡ്ലൈനിന്ടെ സാറ്റിസ്ഫാക്ഷനെ കുറച്ചു ഇനി നമുക്ക് ചർച്ച ചെയ്യാം ഫ്രെയിം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ ടാസ്ക് എത്തുമ്പോൾ ഒരു ടാസ്ക്കിന്റെ ഏറ്റവും വേർസ്റ് കേസ് ഉണ്ടാകുന്നു കാരണം ഒരു ഫ്രെയിമിന്റെ അവസാനഭാഗത്തേക്ക് ടാസ്ക് എത്തുകയാണെങ്കിൽ അടുത്ത ഫ്രെയിം അത് ഏറ്റെടുക്കാം ഒരു ഫ്രെയിം ആരംഭിച്ച് ടാസ്ക് വന്നാൽ ഏറ്റവും വേർസ്റ് കേസ് സംഭവിക്കുന്നു ഇത് എത്രയാണെന്നും എന്താണെന്നും നമുക്ക് കണക്കാക്കാം ഏറ്റവും വേർസ്റ് കേസ് കാരണം ഒരു ഫ്രെയിമിന്റെ അവസാനത്തിൽ എവിടെയെങ്കിലും എത്തുന്ന ഓരോ ടാസ്കുo വേർസ്റ് കേസ് അല്ല കാരണം അത് അടുത്ത ഫ്രെയിമിൽ ഉടനടി ഏറ്റെടുക്കാൻ കഴിയും ഒരു ഫ്രെയിം ബൌണ്ടറിക്കുശേഷം ഒരു ടാസ്ക് എത്തുമ്പോൾ കാത്തിരിക്കേണ്ട പരമാവധി സമയം ഗണിതശാസ്ത്രപരമായ ഡെറിവേഷൻ ഇവിടെ നമ്മൾ കുറച്ച്ചെയ്യും അത് പുസ്തകത്തിൽ ഉള്ളതുപോലെ റിസൾട്ട് GCD ആണ് ഫ്രെയിം സൈസ് ടാസ്കിന്റെ പീരിയഡ് എന്നിവയാണ് ഫ്രെയിം സൈസ്ഉം ടാസ്ക് പിരീഡും തമ്മിലുള്ള ഏറ്റവും ഗ്രെയ്റ്റസ്റ് കോമൺ ഡിവിസർ ഫ്രെയിം ആരംഭിച്ചതിന് ശേഷം ഒരു ടാസ്ക് എത്രത്തോളം എത്തിച്ചേരാമെന്നതിന്റെ ഏറ്റവും വേർസ്റ് കേസ് നൽകുനത്തു GCD ഒന്നാണെങ്കിൽ ഒരു സമയ യൂണിറ്റിന് ശേഷം ടാസ്ക് സംഭവിക്കാം മുകളിൽ നിന്ന് ഏറ്റവും വേർസ്റ് കേസ് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് F GCD ഉണ്ട് F piയാണ് ഇവിടെ വെയ്റ്റിംഗ് ടൈം 2F GCD F pi ≤ di ആയിരിക്കുന്നിടത്തോളം ഏറ്റവും വേർസ്റ് കേസുകളിൽപ്പോലും ടാസ്ക്കുകളുടെ വരവിനും ഡെഡ്ലൈനിനും ഇടയിൽ വ്യക്തമായ ഒരു ഫ്രെയിം നമുക്ക് ലഭ്യമാണ് ഈ കാലയളവിൽ ഇത് ഷെഡ്യൂളിംഗിനായി എടുക്കാൻ കഴിയാത്തതിനാൽ അത് F GCD F pi നായി കാത്തിരിക്കണം അതിനുശേഷം നമുക്ക് വ്യക്തമായ മറ്റൊരു ഫ്രെയിം ഉണ്ടായിരിക്കണം മൂന്നാമത്തെ വ്യവസ്ഥ തന്നിരിക്കുന്ന ടാസ്ക്കുകളുടെ കൂട്ടത്തിൽ ഇത് ഇവയെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ അത് തൃപ്തികരമാണെങ്കിൽ ഫ്രെയിം സൈസ് പ്രായോഗികമാക്കാം അല്ലാത്തപക്ഷം ആ ഫ്രെയിം സൈസ് ഉപേക്ഷിക്കേണ്ടതുണ്ട് താഴെ പറയുന്നതാണ് 3 നിബന്ധനകൾ ആദ്യത്തെ നിബന്ധന ഫ്രെയിം സൈസ് f ഓരോ ടാസ്ക്ന്ടെയും നിർവ്വഹണ സമയത്തേക്കാൾ വലുതായിരിക്കണം എന്നതാണ് ടാസ്ക്കുകളുടെ പരമാവധി എക്സിക്യൂഷൻ സമയം F പോലും ഒരു ടാസ്ക്കിന്റെ പരമാവധി എക്സിക്യൂഷൻ സമയത്തേക്കാൾ കൂടുതലായിരിക്കണം ടാസ്കിന്റെ വരവിനും ഡെഡ്ലൈനിനും ഇടയിൽ വ്യക്തമായ ഒരു ഫ്രെയിം ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥയാണ് ഇതു നൽകുന്നതു ഏറ്റവും മോശം അവസ്ഥ 2F GCDfpi ടാസ്ക് പിരീഡും fഉം ഇത് ടാസ്ക്കിന്റെ ഡെഡ്ലൈനിനു തുല്യമായിരിക്കണം അത് നിർബന്ധമായും എല്ലാ ടാസ്ക് i സാറ്റിസ്ഫയ് ചെയുക മൂന്നാമത്തെ വ്യവസ്ഥ ഫ്രെയിം സൈസ് പ്രധാന സൈക്കിൾനേ സമചതുരമായി വിഭജിക്കണം എന്നതാണ് നമ്മൾ LCM എഴുതിയ പ്രധാനം ഇതാണ് ഇതാണ് ഇന്റർഗ്രേൽ ഡിവിഷൻ f അതിന്ടെ ഒപ്പം f കൊണ്ട് ഗുണിച്ചാൽ LCM തിരികെ ലഭിക്കുകയാണെങ്കിൽ ഫ്രെയിം സൈസ് പ്രധാന സൈക്കിളിനെ സമചതുരമായി വിഭജിക്കുന്നുവെന്ന് നമുക്ക് പറയാം ഡിസൈൻ ട്രേഡ് അപ്പുകൾ നമുക്ക് പരിഗണിക്കാം പ്രായോഗികമാകാൻ സാധ്യതയുള്ള നിരവധി ഫ്രെയിം സൈസ്ഉകളും ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു അത് പ്ലോസിബിൽ ഫ്രെയിമുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു പക്ഷേ അവ 3 നിബന്ധനകൾ തൃപ്തിപ്പെടുത്തുകയും പ്ലോസിബിൽ ആയ ഒരു ഫ്രെയിം നേടുകയും ചെയ്തതിനാൽ നമ്മൾ ഒരു ഷെഡ്യൂൾ കണ്ടെത്തിയെന്ന് അർത്ഥമാക്കുന്നില്ല നമ്മൾ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിക്കണം ടാസ്ക് ഷെഡ്യൂൾ ചെയ്യാൻ ആവശ്യമായ ഫ്രെയിമുകളുടെ എണ്ണം നിലവിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് പ്രധാന സൈക്കിളിൽ ടാസ്ക് ഒന്നു 3 തവണ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് പറയാം പ്രധാന സൈക്കിളെന്ടെ ഫ്രെയിമുകളിൽ മൂന്നിലൊന്നാണ് ടാസ്ക്കിന്റെ കാലയളവ് രണ്ടാമത്തെ ടാസ്ക് പ്രധാന സൈക്കിളിൽ 2 തവണ പ്രവർത്തിക്കുന്നു ഇതിന്റെ പീരിയഡ് പ്രധാന സൈക്കിളെന്ടെ പകുതിയാണ് ഈ 2 ടാസ്കുകൾക്കും ആയി നമുക്ക് അഞ്ച് ഫ്രെയിമുകൾ ആവശ്യമാണ് അതിനാൽ പ്രധാന സൈക്കിളിനുള്ളിൽ അഞ്ച് ഫ്രെയിമുകൾ ഉണ്ടായിരിക്കേണ്ട ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കണം ഉദാഹരണത്തിന് ഒന്നിലധികം ഫ്രെയിം സൈസ്ഉകൾ സാധ്യമാകുകയാണെങ്കിൽ ആ ഫ്രെയിം സൈസ്ഉകളിൽ ഏറ്റവും വലുത് ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഫ്രെയിം സൈസ് 5 ഉം 8 ഉം ഇവ രണ്ടും സാധ്യമാണ് അവ എല്ലാ 3 നിബന്ധനകളും തൃപ്തിപ്പെടുത്തുന്നു മാത്രമല്ല പ്രധാന സൈക്കിളിയിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നത്ര ഫ്രെയിമുകൾക്ക് അവ ഇടയാക്കുന്നു തുടർന്ന് നമ്മൾ വലുത് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതായത് സൈസ് 8 ഫ്രെയിം സൈസ് ആയി 5 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫ്രെയിം സൈസ് 8 തിരഞ്ഞെടുക്കുമ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ നിരവധി ഫ്രെയിം ബൌണ്ടറികൾ ഉണ്ടാകും അതിനർത്ഥം ഒരു വലിയ ഫ്രെയിം സൈസ് ഉമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു ചെറിയ ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഷെഡ്യൂളർ കൂടുതൽ തവണ പ്രവർത്തിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുമ്പോൾ ടാസ്ക് ഷെഡ്യൂളറിന്റെ ഓവർഹെഡ് കൂടുതൽ ആകും ഫ്രെയിം സൈസ്ഉം അതിനാൽ സാധ്യമായ ഏറ്റവും വലിയ ഫ്രെയിം സൈസ് എപ്പോഴുണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു നമ്മൾ ഒരു വലിയ ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുമ്പോൾ ഷെഡ്യൂളർ ഓവർഹെഡ് കുറവാണ് ഉദാഹരണത്തിന് നമുക്ക് 2 ടാസ്ക്കുകൾ A B ഉണ്ട് ഇവിടെ ആദ്യത്തെ ഘടകം 1 ആണ് ഇത് കംപ്യൂടെഷൻ ടൈം ആണ് ഇതു ഒരു യൂണിറ്റ് കംപ്യൂടെഷൻ എടുക്കുന്നു അതിന്റെ കാലയളവും സമയപരിധിയും ഒന്നുതന്നെയാണ് ഒരു സമയപരിധി കൃത്യമായി കാലയളവിൽ സംഭവിക്കുന്നു ഓരോ 6 ടൈം യൂണിറ്റുകൾക്കും ശേഷം ഇത് ആവർത്തിക്കുന്നു അടുത്ത ഇൻസ്റ്റൻസ് വരുന്നതിനുമുമ്പ് ഇത് ആവർത്തിക്കുന്നതിന് മുമ്പ് ആദ്യ ഇൻസ്റ്റൻസ് അവസാനിച്ചിരിക്കണം അതാണ് റിലേറ്റീവ് ഡെഡ്ലൈനിന്റെ സൂചന രണ്ടാമത്തെ ടാസ്ക് B എക്സിക്യൂഷൻ സമയം 2 ആണ് കാലയളവും സമയപരിധിയും രണ്ടും 8 ആണ് പ്രധാന സൈക്കിൾ ചെറിയ സൈക്കിൾ എന്നിവ തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ ചുമതല പ്രധാന സൈക്കിൾ തിരഞ്ഞെടുക്കുന്നത് നേരെയാണ് നമ്മൾ 6 ഉം 8 ഇന്ടെയും LCM എടുക്കുന്നു കൂടാതെ 6 8 എന്നിവയുടെ ഏറ്റവും ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലെ 24 ആണ് ടാസ്ക് A ടാസ്ക് B എന്നിവയുടെ ഇന്റഗ്രൽ സംഖ്യയാണ് 24 അതുപോലെ ടാസ്ക് A യുടെ 4 ഇൻസ്റ്റൻസ് ഉണ്ട് ഒരു പ്രധാന സൈക്കിളെന്ടെ ഉളിൽ ടാസ്ക് B യുടെ 3 ഇൻസ്റ്റൻസ്സ് ഉണ്ട് അതിനാൽ ഒരു പ്രധാന സൈക്കിൾനുള്ളിൽ A B എന്നിവ കണക്കിലെടുത്ത് നമുക്ക് 7 ഉദാഹരണങ്ങൾ ഉണ്ടാകും ഫ്രെയിം സൈസ് തിരഞ്ഞെടുകുക ഫ്രെയിം സൈസ് പ്രധാന സൈക്കിളിനെ സമചതുരമായി വിഭജിക്കണംഷെഡ്യൂൾ ടേബിൾന്ടെ പരിഗണനയിൽ നിന്ന് നമുക്ക് ഇതു കിട്ടുനു ഷെഡ്യൂൾ ടേബിൾ വലുപ്പം കുറച്ചുകൊണ്ട് അതിനാൽ നമുക്ക് 24 12 6 4 3 2 ലഭിക്കും ഫ്രെയിം വലുപ്പങ്ങൾ മറ്റ് വ്യവസ്ഥകൾക്കായി നമുക്ക് പരിഗണിക്കാം അതു 1 അല്ല നമ്മൾ ഇവിടെ 1 എഴുതിയിട്ടില്ല കാരണം ടാസ്ക് Bയുടെ സൈസ് 2 ഉം ഓരോ ഫ്രെയിം സൈസ് കൈവശം വയ്ക്കേണ്ടതുമാണ് ഏറ്റവും വലിയ ടാസ്ക് വലുപ്പത്തേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണം അതിനാൽ ഒന്ന് 2 3 4 6 12 24 പരിഗണിക്കുന്നത് ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല ഏറ്റവും ചെറിയ ഫ്രെയിം സൈസ്ഇൽ ആരംഭിച്ച് മറ്റ് കണ്ടിഷൻ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു ടാസ്ക്കിന്റെ വരവിനും ഏറ്റവും വേർസ്റ് കേസ്ഇലും അതിന്റെ പൂർത്തീകരണത്തിനുമിടയിൽ ഒരു പൂർണ്ണ ഫ്രെയിം നിലവിലുണ്ടോയെന്ന് പരിശോധിക്കാം കൂടാതെ നമ്മൾ ഇത് 2F GCDF ടാസ്ക് പിരീഡ് ഉം പിന്നെ എഫ് 2 എന്നീ ഫോർമുലയിൽ പ്രകടിപ്പിച്ചിരുന്നു അതിനാൽ 2 F F 2 പീരിയഡ് 6 ആണ് അതായത് GCD26 2 അതിനാൽ നമുക്ക് 4 2 2 2 ≤ 6 എന്നിവ ലഭിക്കുന്നു അതുപോലെ നമുക്ക് രണ്ടാമത്തെ ടാസ്ക് n പരിശോധിക്കാം അതിനാൽ രണ്ടാമത്തെ ടാസ്ക്കിന്റെ 2 എഫ് ജിസിഡി എഫ് പിരീഡ് 2 2 ജിസിഡി 28 2 എന്നിവ 4 2 2 2 ≤ 8 എന്നിവയാണ് അതിനാൽ ഫ്രെയിം സൈസ് 2 ഉം ഒപ്പം അത് നമുക്ക് നൽകാൻ കഴിയുന്ന ഫ്രെയിമുകളുടെ എണ്ണം 242 12 ഫ്രെയിമുകളാണ് അത്തരം 7 ഫ്രെയിമുകളിലേക്ക് ആവശ്യാനുസരണം നമുക്ക് A അല്ലെങ്കിൽ B യുടെ ഒരു ഉദാഹരണം നൽകാം കൂടാതെ 5 ഫ്രെയിമുകൾ ഉപയോഗശൂന്യമായി തുടരും ഫ്രെയിം സൈസ് 3 നായി നമ്മൾ വീണ്ടും സമാന വ്യവസ്ഥകൾ ഇവിടെ പ്രയോഗിക്കുന്നു ഇവിടെ 2F GCD F pi ok ആണ് രണ്ടാമത്തെ ടാസ്ക്കിനും കുഴപ്പമില്ല അതിനാൽ ഫ്രെയിം സൈസ് 3 പോലും കുഴപ്പമില്ല ഒരു പ്രധാന സൈക്കിളിൽ നമുക്ക് 243 8 ഫ്രെയിമുകൾ ലഭ്യമാണ് കൂടാതെ ഒരു പ്രധാന സൈക്കിളിൽ നമുക്ക് 7 ടാസ്ക് ഇൻസ്റ്റൻസ്സ് ഉണ്ട് അതിനാൽ ഇത് പോലും സ്വീകാര്യമാണ് നമുക്ക് F 4 നോക്കാം F 4 ൽ നമ്മൾ വീണ്ടും ഈ 2 എക്സ്പ്രഷനുകൾ ഉപയോഗിക്കുന്നു ഇവ രണ്ടും വീണ്ടും സ്വീകാര്യമായിത്തീരുന്നുവെന്ന് നമ്മൾ കണ്ടെത്തുന്നു പക്ഷേ ഫ്രെയിമുകളുടെ എണ്ണം ലഭ്യമല്ലാതാകുന്നത് 6 അതായത് 244 6 ഫ്രെയിമുകൾ നമുക്ക് കഴിയില്ല 6 ഫ്രെയിമുകളിലായി 7 ടാസ്ക് ഇൻസ്റ്റൻസ്സ് ഷെഡ്യൂൾ ചെയ്യാൻ ആവശ്യത്തിന് ഫ്രെയിമുകൾ ലഭ്യമല്ല അതിനാൽ F 4 നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല 6 8 മുതലായവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല കാരണം ഫ്രെയിമുകളുടെ എണ്ണം ഇപ്പോഴും ചെറുതായിത്തീരുന്നു അതിനാൽ നമുക്ക് സാധ്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കാവുന്ന ഏറ്റവും വലിയ ഫ്രെയിം വലുപ്പമാണ് 3 ഇതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഡിസൈൻ ചോയ്സ് 3 ന് തുല്യമായ ഫ്രെയിം സൈസ് ആയിരിക്കും ഉദാഹരണത്തിന് നമുക്ക് 1 3 2 8 എക്സിക്യൂഷൻ സമയത്തോടുകൂടിയ A B C D എന്നീ 4 ടാസ്ക്കുകൾ ഉണ്ട് അവയുടെ കാലയളവ് 10 10 20 20 എന്നിങ്ങനെയാണ് തുടർന്ന് പ്രധാന സൈക്കിൾ കണ്ടെതുനു ഇവിടെ പ്രധാന സൈക്കിൾ ടാസ്ക് പീരിയഡുകളുടെ LCM ആണ് ഇവിടെ 2 പിരീഡുകൾ മാത്രമേയുള്ളൂ 10 ഉം 20 ഉം 10 20 എന്നിവയുടെ LCM 20 ആണ് അടുത്തത് ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുക എന്നതാണ് ഫ്രെയിം സൈസ് എല്ലാ ടാസ്ക്കുകളുടെയും നിർവ്വഹണ സമയത്തേക്കാൾ വലുതായിരിക്കണം അല്ലെങ്കിൽ എല്ലാ ടാസ്ക്കുകളേക്കാളും തുല്യമോ ആയിരിക്കണം മാത്രമല്ല ഇത് മറ്റ് നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് നമ്മൾ അത് പ്രധാന സൈക്കിളിനെ വിഭജിക്കേണ്ടതുണ്ടെന്നും ആ അവസ്ഥയെ അടിസ്ഥാനമാക്കി നമുക്ക് 1 2 4 5 10 20 എന്നിവ ലഭിക്കുമെന്നും എന്നാൽ അത് 8 നെക്കാൾ വലുതായിരിക്കണം അതിനാൽ നമുക്ക് സാധ്യമായ ഫ്രെയിം വലുപ്പമായി 10 ഉം 20 ഉം മാത്രമേ ഉള്ളൂ ഈ കേസുകളിലൊന്നിലും ഫ്രെയിമിന്റെ വലുപ്പം 10 അല്ലെങ്കിൽ 20 ആകാം ഇത് 20 ആണെങ്കിൽ നമുക്ക് ഒരു ഫ്രെയിം ഉണ്ട് 10 ആണെങ്കിൽ നമുക്ക് 2 ഫ്രെയിമുകൾ ഉണ്ട് ഒരു സാഹചര്യത്തിലും നമുക്ക് 2 ഉദാഹരണങ്ങളുള്ളതിനാൽ നമുക്ക് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കാൻ കഴിയും ഈ 2 ഇൻസ്റ്റൻസ്സ് അവയിലൊന്ന് ഒരു പ്രധാന സൈക്കിൾ ആണ് അത് നമുക്ക് 6 ഇൻസ്റ്റൻസ്സ് നൽകുന്നു ഞങ്ങൾക്ക് കുറഞ്ഞത് 6 ഫ്രെയിമുകളെങ്കിലും ആവശ്യമാണ് പക്ഷേ നമുക്ക് 1 അല്ലെങ്കിൽ 2 ഫ്രെയിമുകൾ മാത്രമേ ലഭിക്കൂ ഈ ടാസ്ക്സ് സെറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ല നമുക്ക് ഇവിടെ പ്രധാന കുറ്റവാളിയെ കാണാൻ കഴിയുമെങ്കിൽ ഈ 8 ഇവിടെയുണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ടാസ്ക് സെറ്റ് ഷെഡ്യൂൾ ചെയ്യാനാകാത്തവിധം മാറുന്നതെങ്ങനെയെന്ന് നമ്മൾ കാണും ഒരു സൈക്ലിക് ഷെഡ്യൂളറിൽ ഇത് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്നതും നമ്മൾ ഇവിടെ നിർത്തുന്നു ഈ ഘട്ടത്തിൽ നിന്ന് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ തുടരും